ഹലോ സെക്യുർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഡെമോലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്പോൾ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഉബുണ്ടു റൺ ചെയ്യുന്നുണ്ടെന്നും കരുതുന്നു ഈ ആദ്യ ഡെമോയിൽ ഒരു പ്രോഗ്രാമിൽ ഈ സ്റ്റാക്ക് എങ്ങനെ അവതരിപ്പിക്കുന്നുവെന്ന് നമ്മൾ കാണും കൂടാതെ ഈ പ്രോഗ്രാമുകൾ ഡീബഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന GDB എന്ന ഉപകരണവും ഉപയോഗിക്കും ആദ്യം ചെയ്യേണ്ടത് ടെർമിനൽ ആരംഭിക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ചെയ്യാൻ കഴിയും വെബ്സൈറ്റിൽ നിന്ന് കോഡുകൾ download ചെയ്തിട്ടുണ്ടെങ്കിൽ NPTEL CODES എന്ന ഡയറക്ടറിയിലേക്ക് നാവിഗേറ്റു ചെയ്യുക ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 0 നോക്കും ഈ അവതരണത്തിൽ കാണാൻ പോകുന്ന മൊഡ്യൂൾ കോഡ് ഇതാണ് ഇത് ചെയ്യുന്നത് main ഫംഗ്ഷൻ ഇൻവോക്ക്ചെയ്തിട്ട് 1 2 3 എന്നീ പാരാമീറ്ററുകൾ ഫംഗ്ഷനിലേക്ക് പാസ്സ് ചെയ്യുന്നു മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടതുപോലെ ഈ ഫംഗ്ഷൻ രണ്ട് ബഫറുകളെ നിർവചിക്കുന്നു 5 ബൈറ്റുകളുടെ buffer1ഉം 10 ബൈറ്റുകൾ ഉള്ള buffer2 ഉം ഈ പ്രത്യേക പ്രോഗ്രാമിനായുള്ള സ്റ്റാക്ക് എങ്ങനെ വിശകലനം ചെയ്യാമെന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പ്രോഗ്രാമിനായി എക്സിക്യൂട്ടബിൾ സൃഷ്ടിക്കുക എന്നതാണ് make എന്ന കമാൻഡ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് ഇത് makefile എന്ന് ഒരു സ്ക്രിപ്റ്റ് മാത്രമാണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല ഇത് gccയെ വിവിധ പാരാമീറ്ററുകൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഒടുവിൽ അതിൻറെ എക്സിക്യൂട്ടബിൾ നേടാനാകും fno stack protector z execstack മുതലായ gcc യ്ക്കായുള്ള ഈ ചില പാരാമീറ്ററുകൾ പിന്നീടുള്ള വീഡിയോയിൽ നമ്മൾ കാണും ഈ പ്രത്യേക വീഡിയോയ്ക്കായി M32 G എന്നിവയിൽ രണ്ട് നിർദ്ദിഷ്ട പാരാമീറ്ററുകൾ നമ്മൾ വിശദീകരിക്കും M32 സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ സൃഷ്ടിക്കാവുന്ന എക്സിക്യൂട്ടബിൾ ആണ് ഉദാഹരണം 1ഇൽ ഇത് ഒരു 32 ബിറ്റ് എക്സിക്യൂട്ടബിൾ ആണ് ഇത് ഒരു ഇന്റൽ വെർച്വൽ ബോക്സ് അല്ലെങ്കിൽ ഇന്റൽ മെഷീൻ ആയതിനാൽ ജനറേറ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടബിൾ ഒരു ഇന്റൽ 32 ബിറ്റ് എക്സിക്യൂട്ടബിൾ ആയിരിക്കും ഇവിടെ വ്യക്തമാക്കിയ G ഓപ്ഷൻ ഡീബഗ്ഗിംഗ് symbols എക്സിക്യൂട്ടബിളിലേക്ക് ചേർക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു ഇന്ന് രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഈ പ്രത്യേക ഫയൽ ഒരു elf എക്സിക്യൂട്ടബിൾ ആണ് നമ്മൾ readelf H പോലുള്ള കമാൻഡുകൾ കണ്ടു കൂടാതെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ഈ പ്രത്യേക എക്സിക്യൂട്ടബിളിന്റെ header ഉദാഹരണം 1ൻറെ നമുക്ക് നോക്കാം 7f 45 4c 46 എന്ന ഐഡന്റിഫയർസ് ASCII elf ലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ ഇന്റൽ 80386 ന് ഇത് 32 ബിറ്റ് എക്സിക്യൂട്ടബിൾ ആണെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ഈ എക്സിക്യൂട്ടബിളിനുള്ള എൻട്രി പോയിന്റ് 0x8048ce0 എന്ന സ്ഥാനത്താണ് കൂടാതെ സെക്ഷൻ ഹെഡറുകൾ പോലുള്ള മറ്റ് പല വശങ്ങളും നമ്മൾ കണ്ടു ഇത്യാദി സെക്ഷൻ ഹെഡറുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൽ ലഭിക്കുന്നതിന് readelf S പോലുള്ള readelf ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാം readelf S example1 എന്ന കമാൻഡ് പ്രത്യേക എക്സിക്യൂട്ടബിളിൽ നിലവിലുള്ള വിവിധ വിഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകും example1 എന്ന എക്സിക്യൂട്ടബിളിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് Dump ആണ് അതിനാൽ objdump -disassemble all example1 എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് example1 lst ൽ output store ചെയ്യും ഇത് example1 ഡിസ്അസംബ്ലിംഗ് ചെയ്യുകയും example1 lst എന്ന് വിളിക്കുന്ന ഫയലിൽ disassembly store ചെയ്യുകയും ചെയ്യും മറ്റൊരു ടാബ് തുറന്ന് example1 lst നോക്കാം എന്നിട്ട് നമുക്ക് main ഫംഗ്ഷൻ search ചെയ്യാം നമ്മൾ C കോഡ് തുറക്കുമ്പോൾ ഈ ഫംഗ്ഷനിലേക്ക് ഒരു ഇൻവോക്കേഷൻ ഉണ്ടെന്ന് കാണാം ഈ സ്ഥാനത്ത് ഇൻസ്ട്രക്ഷൻ കോൾ പ്രവർത്തിക്കാനുള്ള മെഷീൻ കോഡ് ആയ 80483ED കാണാം മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടതുപോലെ ഫംഗ്ഷനിലേക്ക് പാസ്സ് ചെയ്ത 1 2 3 എന്നീ മൂന്ന് പാരാമീറ്ററുകൾ സ്റ്റാക്കിലേക്ക് വലതു വശത്ത് നിന്ന് പുഷ് 3 പുഷ് 2 പുഷ് 1 എന്ന ഓർഡറിൽ പുഷ് ചെയ്യുന്നു ഇവിടെ ഈ ഫംഗ്ഷൻ ഡിസ്അസംബ്ലി ചെയ്യുന്നത് നമ്മൾ കാണുന്നു കൂടാതെ ഈ functionൻറെ preambleൽ ഒരു സ്റ്റാക്ക് ഫ്രെയിം സൃഷ്ടിക്കുന്നു local variablesനുള്ള space ഇവിടെയുണ്ട് ഈ functionലെ മൂന്നാമത്തെ നിർദ്ദേശത്തിൽ സ്റ്റാക്ക് ഫ്രെയിമിനായി 16 ബൈറ്റുകളായ 0x10 ഉണ്ടെന്ന് നമ്മൾ കാണുന്നു കാരണം ലോക്കൽ വേരിയബിളുകളുടെ ആകെ വലുപ്പം 16 ബൈറ്റുകളാണ് അടുത്തതായി നമ്മൾ നോക്കുന്ന ഉപകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് GDB എന്നറിയപ്പെടുന്നു ഇത് പ്രോഗ്രാം ഡീബഗ് ചെയ്തു വിവിധ രജിസ്റ്ററുകളും സ്റ്റാക്ക് contentsകളും പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു ആദ്യമായി നമ്മൾ gdb example1 executableൽ കൊടുക്കുന്നു GDB നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പ്രോംപ്റ്റ് നൽകും കൂടാതെ ഈ പ്രോംപ്റ്റിലൂടെ നിങ്ങൾക്ക് ലിസ്റ്റ് കമാൻഡ് പോലുള്ള വിവിധ കമാൻഡുകൾ അയയ്ക്കാൻ കഴിയും അത് മുഴുവൻ സോഴ്സ് കോഡും ലിസ്റ്റുചെയ്യും കൂടാതെ നിങ്ങൾക്ക് b പോലുള്ള ബ്രേക്ക് പോയിന്റുകൾ 10 ാം വരിയിലേക്ക് അയയ്ക്കാൻ കഴിയും ഇതിനർത്ഥം ബ്രേക്ക് പോയിന്റ് 10 ലഭിക്കുന്നതുവരെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും അതിനാൽ പ്രോഗ്രാം 10 ാം വരി വരെ എക്സിക്യൂട്ട് ചെയ്യുമെന്നും തുടർന്ന് തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം gdb r എന്ന കമാൻഡ് ഉപയോഗിച്ച് റൺ ചെയ്യാം Line 10ലെ ബ്രേക്ക് പോയിന്റ് 1ൽ എത്തിച്ചേർന്നതായി gdb നിങ്ങളോട് പറയുന്നു ഈ ഘട്ടത്തിൽ നമുക്ക് വിവിധ രജിസ്റ്ററുകളുടെ വിവിധ ഉള്ളടക്കങ്ങൾ gdb info registers eip പോലുള്ള കമാൻഡ് ഉപയോഗിച്ച് നോക്കാം ഇത് ഇൻസ്ട്രക്ഷൻ പോയിന്ററിനെ സൂചിപ്പിക്കുന്നു സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്ററിനെ സൂചിപ്പിക്കുന്ന esp സ്റ്റാക്കിലെ ഫ്രെയിം പോയിന്ററാണ് 80483e7 എന്ന സ്ഥലത്തേക്കാണ് eip point ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ഈ കോഡിലേക്ക് തിരികെ പോയാൽ eip ഇതേ addressൽ ആണ് point ചെയ്യുന്നതെന്ന് കാണാം സ്റ്റാക്ക് പോയിൻറ് ലൊക്കേഷൻ 0xffffcf68 ആണെന്നും കാണുന്നു നമുക്ക് gdb x32x esp എന്ന കമാൻഡ് ഉപയോഗിച്ച് സ്റ്റാക്കിലെ ഉള്ളടക്കങ്ങൾ പ്രിന്റുചെയ്യാൻ കഴിയും ഈ കമാൻഡ് ചെയ്യുന്നത് സ്റ്റാക്ക് പോയിന്റർ Specify ചെയ്ത ലൊക്കേഷൻ ഈ കേസിൽ അത് ffffcf68 എന്നതാണ് മുതലുള്ള മെമ്മറി contents dump ചെയ്യുന്നു എന്നതാണ് ഇവിടെ 32 പ്രദർശിപ്പിക്കേണ്ട മെമ്മറി locations സൂചിപ്പിക്കുന്നു ഡിസ്പ്ലേ ഹെക്സ ഡെസിമൽ മൂല്യങ്ങളിലായിരിക്കണമെന്ന് ഇവിടെ x വ്യക്തമാക്കുന്നു ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിന്റർ point ചെയ്യുന്ന push 03 എന്ന instruction ഇതുവരെ execute ചെയ്തിട്ടില്ല നമുക്ക് ffffcf68 എന്ന addressലേക്ക് പോയിന്റുചെയ്യുന്ന ഒരു സ്റ്റാക്ക് പോയിന്റർ ഉണ്ട് ഈ കേസിൽ base pointerൻറെ value ffffcf68 തന്നെയാണ് ഇതിനുള്ള കാരണം ഈ നിർദ്ദേശത്തിലെ സ്റ്റാക്ക് പോയിന്റർ esp ebp ലേക്ക് മൂവ് ചെയ്യുന്നു എന്നതാണ് സ്റ്റാക്ക് പോയിന്റർ വാസ്തവത്തിൽ ബേസ് പോയിന്ററായി പകർത്തിയതിനാൽ സ്റ്റാക്ക് പോയിന്ററും base പോയിന്ററും ഒന്നു തന്നെയാണ് objdump ഉപയോഗിച്ച് ലഭിക്കുന്ന ഡിസ്അസംബ്ലി gdb ഉപയോഗിച്ചും ലഭിക്കും അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് അതേ വിശദാംശങ്ങൾ നൽകുന്ന gdb disassemble എന്ന കമാൻഡ് ഉപയോഗിക്കാം gdb യിലൂടെ കിട്ടിയ ഡിസ്അസംബ്ലി ഈ പ്രോഗ്രാമിന്റെ നിലവിലുള്ള സ്ഥാനം പ്രോഗ്രാം കൌണ്ടർൻറെ കറൻറ് ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തരും സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ സിംഗിൾ ഇൻസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഓരോ നിർദ്ദേശങ്ങളും individual ആയി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും കൂടാതെ gdb si എന്നിങ്ങനെ command നമ്മൾ ചുരുക്കുകയും ചെയ്യുന്നു si എന്ന ഇൻസ്ട്രക്ഷൻ ഇവിടെ പുഷ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടും അതിനാൽ 4a3e7ൽ അവസാനിക്കുന്ന ഈ നിർദ്ദേശം എക്സിക്യൂട്ട് ചെയ്തുവെന്നും ആ പ്രോഗ്രാം വീണ്ടും ഡിസ്അസംബ്ലി ചെയ്യുമ്പോൾ counter അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പോയിന്റർ അടുത്ത നിർദ്ദേശത്തിലേക്ക് മാറിയിട്ടുണ്ടാകും എന്നും കാണാം മുമ്പ് ചെയ്തതു പോലെ സ്റ്റാക്ക് ഉള്ളടക്കങ്ങൾ Dump ചെയ്യുന്നതിലൂടെ സ്റ്റാക്കിലെ effect നമുക്ക് കാണാൻ കഴിയും ഇതുവരെ നമ്മൾ gdb x32x esp എന്ന കമാൻഡ് ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത് ഇവിടെ ഒരു വ്യത്യാസമുണ്ടെന്ന് നമ്മൾ കാണുന്നു 3 ന്റെ ഉള്ളടക്കങ്ങൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നു ഇതുപോലുള്ള അടുത്ത നിർദ്ദേശങ്ങളിലൂടെ 1 2 3 എന്നീ എല്ലാ പാരാമീറ്ററുകളും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും ഇൻസ്ട്രക്ഷൻ പോയിന്റർ ഇപ്പോൾ ഈ call instructionലേക്ക് വിരൽ ചൂണ്ടുന്നു ഒരു കോൾ നിർദ്ദേശം ഉള്ളപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഈ 80483db എന്ന address ഇൻസ്ട്രക്ഷൻ പോയിന്ററിലേക്ക് മാറ്റുന്നു അതേ സമയം തന്നെ 080483f2 എന്ന അടുത്ത അഡ്രസ് സ്റ്റാക്കിലേക്ക് പുഷ്ചെയ്യപ്പെടുന്നു ഒരൊറ്റ നിർദ്ദേശം ഉപയോഗിച്ച് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ വീണ്ടും സ്റ്റാക്കിലേക്ക് നോക്കുമ്പോൾൾ അടുത്ത നിർദ്ദേശം ആയ 08483f2 അഥവാ റിട്ടേൺ അഡ്രസ്സ് stackലേക്ക് പുഷ് ചെയ്യുന്നത് നമുക്ക് കാണാം അതേ സമയം eip രജിസ്റ്ററുലെ contents നോക്കുകയാണെങ്കിൽ അത് 80483db എന്ന സ്ഥാനത്തേക്ക് പോയിൻറ് ചെയ്യുന്നതായും നമുക്ക് കാണാം eip register തന്നെയാണ് ഇൻസ്ട്രക്ഷൻ പോയിന്റർ അത് ഫംഗ്ഷൻ starting location കാണിക്കുന്നു മുമ്പത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഈ function അതിൻറെ ആമുഖത്തിൽ ചെയ്യുന്നത് അത് മുമ്പത്തെ ഫ്രെയിം പോയിന്റർ value സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു എന്നതാണ് ഇത് സ്റ്റാക്ക് pointerൻറെ value base പോയിന്ററിലേക്ക് നീക്കുന്നു തുടർന്ന് ഈ subtract instruction സ്റ്റാക്കിൽ 16 ബൈറ്റുകളുടെ ഡാറ്റ allocate ചെയ്യുന്നു 3 നിർദ്ദേശങ്ങൾ ഉപയോഗിച്ചാണ് ഇത് സംഭവിക്കുന്നത് gdb si 3 എന്ന കമാൻഡ് ഉപയോഗിച്ച് 3 നിർദ്ദേശങ്ങൾ എക്സിക്യൂട്ട്ചെയ്യാൻ സാധിക്കും ഈ കമാൻഡ് disassemble ചെയ്യുകയാണെങ്കിൽ push ebp move esp to ebp subtract 16 from esp എന്ന 3 നിർദ്ദേശങ്ങൾ എക്സിക്യൂട്ട് ചെയ്തതായി കാണാം സ്റ്റാക്കിലെ contents വീണ്ടും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റാക്ക് pointer ffffcf44 ലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഈ subtract instruction 16 ബൈറ്റുകളുടെ ഡാറ്റ buffer1നും buffer2നും allocate ചെയ്യുന്നു gdb info registers eip esp ebp എന്ന കമാൻഡ് ഉപയോഗിച്ച് രജിസ്റ്ററുകളിലെ ഉള്ളടക്കങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റാക്ക് pointerൻറെ valueഉം അതിൻറെ base pointerൻറെ valueഉം തമ്മിൽ ഒരു അകലം ഉണ്ടെന്ന് നമ്മൾ കാണുന്നു ഈ രണ്ട് അഡ്രസുകളുടെ യും ഇടയിലുള്ള region ആ ഫംഗ്ഷന്റെ active ഫ്രെയിമാണ് ഇപ്പോൾ ഈ regionൽ ffffcf44 നും ffffcf54 നും ഇടയിലാണ് ഈ ഫംഗ്ഷന്റെ locals ഉള്ളത് gdb info locals എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഈ functionലെ local variableകളെ നോക്കാം ഈ ഫംഗ്ഷനിൽ buffer1 buffer2 എന്നീ 2 local variables ഉള്ളതായി നമ്മൾ കാണുന്നു gdb px buffer1 എന്ന കമാൻഡ് buffer1ൻറെ അഡ്രസ്സും gdb px buffer2 എന്ന കമാൻഡ് buffer2 ൻറെ അഡ്രസ്സും തരുന്നു buffer1 buffer2 എന്നിവ സ്റ്റാക്ക് ഫ്രെയിമിനുള്ളിൽ ആണെന്നും അത് രണ്ടും സ്റ്റാക്ക് പോയിന്ററിനും അടിസ്ഥാന പോയിന്ററിനും ഉള്ളിൽ ആണെന്നും നമുക്ക് കാണാം നമ്മൾ disassemblyയിലേക്ക് തിരിച്ചുവരുമ്പോൾ leave ഇൻസ്ട്രക്ഷൻഉം return ഇൻസ്ട്രക്ഷൻഉം അവശേഷിക്കുന്നുവെന്നത് കാണാം leave ഇൻസ്ട്രക്ഷൻ പ്രധാനമായും സ്റ്റാക്ക് ഫ്രെയിമിനെ പുനസ്ഥാപിക്കുന്നു ഈ കേസിൽ മുമ്പത്തെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പഴയ ഫ്രെയിം അതായത് main ഫംഗ്ഷൻ restore ചെയ്യപ്പെടുന്നു തുടർന്ന് return ഇൻസ്ട്രക്ഷൻ main ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു ഇവിടെ 3 ആകുന്ന ഒറ്റ നിർദ്ദേശം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 നിർദ്ദേശങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും കൂടാതെ നമ്മൾ കാണുന്നത് എക്സിക്യൂഷൻ main ഫംഗ്ഷനിലേക്ക് പോയി എന്നതാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുന്നതിന് നമുക്ക് വിവിധ രജിസ്റ്ററുകളിലേക്ക് നോക്കാം കൂടാതെ ഇൻസ്ട്രക്ഷൻ പോയിന്റർ ഇപ്പോൾ കോളിന് തൊട്ടു പിന്നാലെ ഫംഗ്ഷനിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇത് add ഫംഗ്ഷനുമായി യോജിക്കുന്നു കൂടാതെ സ്റ്റാക്ക് പോയിന്ററും അടിസ്ഥാന പോയിന്ററും സ്റ്റാക്കിൽ മുകളിലേക്ക് നീങ്ങി എന്നതാണ് നമ്മൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു main ഫംഗ്ഷനിലേക്ക് തിരിച്ചുവരുമ്പോൾ ആക്റ്റീവ് ഫ്രെയിം main ഫംഗ്ഷൻൻറെത് ആണെന്ന് കാണുന്നു എല്ലാ ലോക്കൽ വേരിയബിളുകളും തിരിച്ചു വന്ന് ഇവിടെ സജീവമാകും അതിനാൽ ലഭ്യമായ ഏറ്റവും മികച്ച ഡീബഗ്ഗിംഗ് സോഫ്റ്റ്വെയറുകളിലൊന്നാണ് gdb ഇത് സൌജന്യമായി ലഭ്യമാണ് കൂടാതെ നമ്മൾ കാണുന്നത് gdb ക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ചെറിയ കാഴ്ച മാത്രമാണ് gdb യുടെ വിവിധ കമാൻഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു Document നിങ്ങളുമായി പങ്കിടാൻ നമ്മൾ ശ്രമിക്കും കൂടാതെ നമുക്ക് gdb ഉപയോഗിച്ച് വിവിധ കാര്യങ്ങൾ പരീക്ഷിക്കാനും കൂടാതെ മറ്റ് വിവിധ പ്രോഗ്രാമുകളുമായി അത്തരം ഡീബഗ്ഗിംഗ് നടത്താനും ശ്രമിക്കാം സ്റ്റാക്കും മറ്റ് local വേരിയബിളുകളും എങ്ങനെ പരിപാലിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് നോക്കാം References 1 GDB - GNU Project Debugger 2